അതിനാൽ ഒരു ഗ്രാഫ് പര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള ഫോർമൽ അൽഗോരിതം നോക്കാം അതിനാൽ ഒരു ഗ്രാഫിൽ ഒരു കൂട്ടം ലംബങ്ങളും ഒരു കൂട്ടം അരികുകളും അടങ്ങിയിരിക്കുന്നുവെന്ന് ഓർക്കുക അരികുകൾ വെർട്ടീസുകൾ തമ്മിലുള്ള കണക്ഷനുകളാണ് അവ സംവിധാനം ചെയ്യുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യാം അതിനാൽ ഞങ്ങൾ ഇത് വഴിതിരിച്ചുവിടാത്ത ഗ്രാഫ് നോക്കുകയാണെങ്കിൽ സോഴ്സ് വെർട്ടെക്സ് ഒരു ടാർഗെറ്റ് വെർട്ടെക്സുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോയെന്ന് കണ്ടെത്തുകയാണ് ഈ തുക v 0 മുതൽ ഉറവിട വെർട്ടെക്സിൽ നിന്ന് v k ലേക്ക് ടാർഗെറ്റ് വെർട്ടെക്സിലേക്ക് ഒരു പാത്ത് കണ്ടെത്തുന്നതിന് തുല്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞു അവിടെ പാതയിലെ ഓരോ ജോഡി വെർട്ടീസുകളും ഗ്രാഫിലെ ഒരു എഡ്ജ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ദൃശ്യപരമായി ചെറിയ ഗ്രാഫുകൾക്കായി ഞങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാമെന്ന് ഞങ്ങൾ വാദിച്ചു എന്നാൽ നിങ്ങൾക്ക് ഒരു അൽഗോരിതം എഴുതണമെങ്കിൽ ഗ്രാഫിനെ പ്രതിനിധീകരിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു മാർഗം ആവശ്യമാണ് അതിനാൽ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് 1 മുതൽ n വരെ ലംബങ്ങൾക്ക് പേരിടണം എന്നതാണ് അതിനാൽ ഞങ്ങൾക്ക് n വെർട്ടീസുകൾ ഉണ്ട് ഞങ്ങൾ അത് ചെയ്യും n വരെ 1 2 3 4 എന്ന് വിളിക്കുക അടുത്തുള്ള മാട്രിക്സിലൂടെ നമുക്ക് ഗ്രാഫിന്റെ ഘടനയെ പ്രതിനിധീകരിക്കാൻ കഴിയും ഈ സമീപസ്ഥല മാട്രിക്സിൽ i j'th എൻട്രി സൂചിപ്പിക്കുന്നത് വെർട്ടെക്സ് i മുതൽ വെർട്ടെക്സ് j വരെയുള്ള ഒരു അരികിലെ സമ്മാനങ്ങളോ അഭാവമോ ആണ് അതിനാൽ ഒരു i j 1 ആണ് ഒരു എഡ്ജ് ഉണ്ട് ഒരു i j 0 ആണ് ഒരു വിഷയവുമില്ലെങ്കിൽ ഈ മാട്രിക്സിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ ജോഡി വെർട്ടീസുകൾ നേരിട്ട് ബന്ധിപ്പിക്കുന്നുണ്ടോയെന്ന് ഞങ്ങൾ അവരുടെ ഉചിതമായ എൻട്രി തെളിയിക്കേണ്ടതുണ്ട് സ്ഥിരമായ സമയത്ത് ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും ഒരു ശീർഷകത്തിന്റെ going ട്ട്ഗോയിംഗ് അയൽക്കാരെ കണ്ടെത്താൻ ആ ശീർഷകത്തിനായി ഞങ്ങൾ വരി സ്കാൻ ചെയ്യണം അതിനാൽ ലംബങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് രേഖീയ സമയം എടുക്കും ഇപ്പോൾ ഞങ്ങൾ നിരീക്ഷിച്ച ഒരു കാര്യം സാധാരണഗതിയിൽ നിരവധി ഗ്രാഫുകൾ ഈ മാട്രിക്സ് മിക്കവാറും 0 ആണ് മിക്ക ജോഡികളും ബന്ധിപ്പിച്ചിട്ടില്ല അതിനാൽ ഓരോ ശീർഷകത്തിന്റെയും അയൽക്കാരെ പട്ടികപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ കോംപാക്റ്റ് പ്രാതിനിധ്യം നേടാനാകും അതിനാൽ 1 0 എന്നിവയുടെ ഒരു വരി സൂക്ഷിക്കുന്നതിനുപകരം ആ എൻട്രികൾ 1 ആയ ആ വെർട്ടീസുകൾ ഞങ്ങൾ റെക്കോർഡുചെയ്യുന്നു പക്ഷേ ഈ സാഹചര്യത്തിൽ ഒരു ജോഡി i j കണക്റ്റുചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് i നായുള്ള ലിസ്റ്റ് നോക്കുകയും അതിൽ j പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ കാണുകയും വേണം ഇപ്പോൾ ഒരു ടാർഗെറ്റ് വെർട്ടെക്സിൽ ഒരു സോഴ്സ് വെർട്ടെക്സിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാത്ത് കണ്ടെത്തുന്നതിനുള്ള ഞങ്ങളുടെ തന്ത്രം അത് പിന്തുടരുന്നു ഞങ്ങൾ സോഴ്സ് വെർട്ടെക്സിൽ നിന്ന് ആരംഭിച്ച് ഗ്രാഫ് ആസൂത്രിതമായി പര്യവേക്ഷണം ചെയ്യും ഓരോ തവണയും ഞങ്ങൾ ഒരു ശീർഷകത്തിലേക്ക് പോയി നിങ്ങൾ അത് സന്ദർശിച്ചതായി അടയാളപ്പെടുത്തും തുടർന്ന് ഞങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് നിങ്ങൾ ലംബങ്ങൾ പര്യവേക്ഷണം ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരേ ശീർഷകം രണ്ടുതവണ വീണ്ടും പര്യവേക്ഷണം ചെയ്തിട്ടില്ല അതിനാൽ അവ രണ്ട് അടിസ്ഥാന തന്ത്രങ്ങളായിരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു അതിനാൽ ഇന്ന് നമ്മൾ വിശാലമായ ആദ്യ തിരയൽ കാണാൻ പോകുന്നു അതിനാൽ ഗ്രാഫ് ലെവൽ അനുസരിച്ച് പര്യവേക്ഷണം ചെയ്യുക എന്നതാണ് ആദ്യ തിരയലിന്റെ ആശയം അതിനാൽ ഞങ്ങൾ സോഴ്സ് വെർട്ടെക്സിൽ നിന്ന് ആരംഭിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരു പടി അകലെയുള്ള എല്ലാ വെർട്ടീസുകളും പര്യവേക്ഷണം ചെയ്യുന്നു സോഴ്സ് വെർട്ടെക്സിലേക്ക് നേരിട്ടുള്ള എഡ്ജ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു തുടർന്ന് ലെവൽ 1 വെർട്ടീസുകളിൽ നിന്ന് ഒരു പടി അകലെ പുതുതായി ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ വെർട്ടീസുകളും ഞങ്ങൾ ചോർത്തുന്നു അതിനാൽ ഇവ ഉറവിട ശീർഷകത്തിൽ നിന്ന് രണ്ട് ഘട്ടങ്ങൾ അകലെയാണ് തുടർന്ന് മൂന്ന് ഘട്ടങ്ങൾക്കായി ഇപ്പോൾ ഞങ്ങൾ ഈ സെറ്റ് ദൈർഘ്യം ചെയ്യുമ്പോൾ രണ്ട് അളവുകളുടെ ട്രാക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് ഒരു നിശ്ചിത ശീർഷകം സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് പര്യവേക്ഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത് ഉറവിട ശീർഷകവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ അത്തരം ഓരോ ശീർഷകത്തിനും ഇത് അയൽവാസികളാണെന്ന് ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യണം അതിനാൽ ഓരോ ശീർഷകത്തിനും നമ്മൾ അറിയേണ്ടതുണ്ട് അത് സന്ദർശിച്ചിട്ടുണ്ടോ അത് സന്ദർശിച്ചയുടൻ ഞങ്ങൾക്ക് അത് പര്യവേക്ഷണം ചെയ്യാൻ കഴിഞ്ഞേക്കില്ല അതിനാൽ ഞങ്ങൾ അത് പര്യവേക്ഷണം ചെയ്തു അല്ലെങ്കിൽ പര്യവേക്ഷണം ചെയ്തിട്ടില്ലെന്നും പര്യവേക്ഷണം ചെയ്യാത്തവയാണെന്നും ഞങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് അവ ഒരിക്കൽ പര്യവേക്ഷണം ചെയ്തുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ ഈ അളവുകളുടെ ട്രാക്ക് സൂക്ഷിക്കാൻ ചില ഡാറ്റ ഘടനകൾ ഉപയോഗിക്കുക എന്നതാണ് ഇതിനുള്ള മാർഗം ഞങ്ങൾ പറഞ്ഞതുപോലെ ലംബങ്ങളുടെ ഗണം 1 മുതൽ n വരെ അക്കമിട്ടു അതിനാൽ 1 മുതൽ n വരെയുള്ള എൻട്രികൾക്കൊപ്പം ഒരു അറേ സന്ദർശിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഇത് ഞാൻ സന്ദർശിച്ച വെർടെക്സ് ഇല്ലേ എന്ന് നമ്മോട് പറയുന്നു ഇപ്പോൾ ഞാൻ ഒരു ശീർഷകം സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ അത് പിന്നീട് പര്യവേക്ഷണം ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ ഇത് ഉടനടി പര്യവേക്ഷണം ചെയ്യാനിടയില്ല കുറച്ച് സമയത്തേക്ക് അത് തീർപ്പുകൽപ്പിച്ചിട്ടില്ല അതിനാൽ ഈ വെർട്ടീസുകളുടെ ഒരു ശേഖരം ഞങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് അവ സന്ദർശിച്ചു പക്ഷേ ഇതുവരെ പര്യവേക്ഷണം ചെയ്തിട്ടില്ല ഇത് ചെയ്യുന്നതിന് ധാരാളം മാർഗങ്ങളുണ്ട് പക്ഷേ ഒരു സ്വാഭാവിക മാർഗം അവർ സന്ദർശിക്കുന്ന ക്രമത്തിൽ അവ പര്യവേക്ഷണം ചെയ്യുക എന്നതാണ് അതിനാൽ അവർ സന്ദർശിക്കുന്ന ക്രമത്തിൽ പര്യവേക്ഷണം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പര്യവേക്ഷണം ചെയ്യപ്പെടാത്തതും എന്നാൽ സന്ദർശിച്ച വെർട്ടീസുകളുടെയും പട്ടിക സൂക്ഷിക്കുന്നതിനുള്ള ഒരു സ്വാഭാവിക ഡാറ്റാ ഘടന അതിനാൽ ഞങ്ങൾ സന്ദർശിച്ച ഓരോ ശീർഷകവും ക്യൂവിലേക്ക് ഇടുന്നു ഞങ്ങൾ ആദ്യമായി അതിലേക്ക് വരുന്നു തുടർന്ന് എല്ലാ വെർട്ടീസുകളും പര്യവേക്ഷണം ചെയ്യുന്നതുവരെ ഞങ്ങൾ ക്യൂവിലെ എല്ലാ വെർട്ടീസുകളും പ്രോസസ്സ് ചെയ്യുന്നു അതിനാൽ ആദ്യത്തെ തിരയലിനായുള്ള ചില ഉയർന്ന ലെവൽ സ്യൂഡോ കോഡ് ഞങ്ങൾ ആദ്യമായി സന്ദർശിച്ച ഒരു ശീർഷകത്തിൽ എത്തുമ്പോൾ ഞങ്ങൾ അത് ഒടുവിൽ പര്യവേക്ഷണം ചെയ്യും ഒരു ശീർഷകം പര്യവേക്ഷണം ചെയ്യുന്നതിന്റെ അർത്ഥമെന്താണ് ഞങ്ങൾ ഔട്ട് ഗോയിങ്ഗ് അരികുകളിലേക്ക് നോക്കുന്നു i കോമ j ഇതിനകം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യാനില്ല മറുവശത്ത് j സന്ദർശിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അത് സന്ദർശിച്ചതായി അടയാളപ്പെടുത്തുകയും പിന്നീട് പര്യവേക്ഷണം ചെയ്യാനുള്ള ക്യൂ ചേർക്കുകയും ചെയ്യും അതിനാൽ ഉറവിട ശീർഷകം അടയാളപ്പെടുത്തി ക്യൂവിലും ഓരോ ഘട്ടത്തിലും ചേർത്തുകൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ ക്യൂവിന്റെ തലയുടെ ശീർഷകം ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും ചില ഘട്ടങ്ങളിൽ ക്യൂവിൽ വെർട്ടീസുകൾ ഇല്ലെങ്കിൽ അതിനർത്ഥം ഞങ്ങൾ സന്ദർശിച്ച ഓരോ ശീർഷകവും പര്യവേക്ഷണം ചെയ്യപ്പെട്ടുവെന്നും അതിനാൽ പുതിയ വിവരങ്ങളൊന്നും അവശേഷിക്കുന്നില്ലെന്നും പര്യവേക്ഷണം നിർത്താൻ കഴിയുമെന്നും അർത്ഥമാക്കുന്നു അതിനാൽ ആദ്യത്തെ തിരയലിനായി യഥാർത്ഥ കോഡ് നൽകുന്നതിനുമുമ്പ് ഈ ഡാറ്റ ഘടനകൾ എങ്ങനെ അപ്ഡേറ്റുചെയ്യുന്നുവെന്ന് നമുക്ക് കാണാനും കാണാനുമുള്ള ഉദാഹരണം നോക്കാം അതിനാൽ ഈ 10 ലംബങ്ങൾ 1 മുതൽ 10 വരെ ഉണ്ട് അത് ആരംഭിക്കുന്ന പാത 1 നായി ഞങ്ങൾ തിരയുന്നു അതിനാൽ ക്യൂവിൽ പതിവുപോലെ ഞങ്ങൾക്ക് രണ്ട് പോയിന്ററുകൾ ഉണ്ട് പച്ചയിൽ സൂചിപ്പിക്കുന്ന ഒരു പോയിന്റർ ഉണ്ട് അത് ക്യൂവിന്റെ തലയാണ് ഒരു പോയിന്റർ ചുവപ്പിൽ അത് ക്യൂവിന്റെ വാൽ ആണ് അതിനാൽ ആരംഭ ശീർഷകം 1 ലഭിക്കാൻ ഞങ്ങൾ ക്യൂ സമാരംഭിക്കുന്നു കൂടാതെ ഈ ശീർഷകം സന്ദർശിച്ചതായും ഞങ്ങൾ അടയാളപ്പെടുത്തുന്നു ഇപ്പോൾ ഞങ്ങൾ 1 പര്യവേക്ഷണം ചെയ്യണം അതിനാൽ നമ്മൾ ചെയ്യുന്നത് ക്യൂവിൽ നിന്ന് 1 നീക്കംചെയ്യുകയും അവ ഓരോന്നും going ട്ട്ഗോയിംഗ് അരികുകളാണെന്ന് വ്യവസ്ഥാപിതമായി പരിശോധിക്കുകയും ടാർഗെറ്റ് വെർട്ടീസുകൾ ഇതിനകം സന്ദർശിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അത് ചേർക്കുകയും ചെയ്യുന്നു അതിനാൽ 1 മുതൽ 10 വരെയുള്ള ക്രമത്തിൽ രണ്ടെണ്ണം 1 ന്റെ ആദ്യ അയൽക്കാരൻ ഇത് സന്ദർശിച്ചിട്ടില്ല അതിനാൽ ഞങ്ങൾ ഇത് ക്യൂവിലേക്ക് ചേർത്ത് സന്ദർശിച്ച അറേയിൽ സന്ദർശിച്ചവരെ അടയാളപ്പെടുത്തുന്നു അതുപോലെ ഞങ്ങൾ അടയാളപ്പെടുത്തിയത് 3 സന്ദർശിച്ചു തുടർന്ന് ഞങ്ങൾ 4 അടയാളപ്പെടുത്തി ഈ അവസ്ഥയിൽ ഞങ്ങൾ ശീർഷകം 1 പര്യവേക്ഷണം ചെയ്തു അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ക്യൂവിലേക്ക് തിരിച്ചുപോയി ഇനിയും പര്യവേക്ഷണം ചെയ്യാനുണ്ടോ എന്ന് നോക്കാം സന്ദർശിച്ചു അവിടെ ഞങ്ങൾ ആദ്യ തിരയൽ 2 എടുക്കുന്നു അതിനാൽ ഞാൻ ക്യൂവിൽ നിന്ന് 2 നീക്കംചെയ്യുന്നു അത് going ട്ട്ഗോയിംഗ് അയൽവാസികളാണെന്ന് ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു ഇപ്പോൾ ഈ കേസിൽ 2 ന്റെ going ട്ട്ഗോയിംഗ് അയൽക്കാർ 1 ഉം 3 ഉം ആണ് പക്ഷേ 1 3 എന്നിവ രണ്ടും സന്ദർശിച്ചതിനാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ പോയി വീണ്ടും ക്യൂവിലേക്ക് പോകുന്നു അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ ശീർഷകം 3 എടുക്കുന്നു അത് going ട്ട്ഗോയിംഗ് അയൽക്കാരാണെന്ന് ഞങ്ങൾ നോക്കുന്നു വീണ്ടും ഇതിന് going ട്ട്ഗോയിംഗ് അയൽക്കാരായ 1 2 ഉണ്ട് രണ്ട് സവിശേഷതകളും ഇതിനകം സന്ദർശിച്ചു അതിനാൽ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ ക്യൂവിലേക്കും പിക്കപ്പ് 4 ലേക്കും മടങ്ങി അത് പര്യവേക്ഷണം ചെയ്യാൻ ശ്രമിക്കുന്നു അതിനാൽ 4 അയൽക്കാരൻ 1 ഉണ്ട് അത് ഇതിനകം സന്ദർശിച്ചു അടുത്ത അയൽക്കാരൻ 5 ആണ് കാരണം 5 പുതിയതായതിനാൽ ഞങ്ങൾ ക്യൂവിലേക്ക് ചേർത്തു ഞങ്ങൾ അത് സന്ദർശിച്ചതായി അടയാളപ്പെടുത്തുന്നു അതിനുശേഷം അതിന് ഒരു അയൽവാസിയുമുണ്ട് ഇപ്പോൾ ഞങ്ങൾ 4 പര്യവേക്ഷണം പൂർത്തിയാക്കി 4 ഇതിനകം സന്ദർശിച്ചു എന്നാൽ 6 പുതിയതും 7 ഉം ആണ് ഇപ്പോൾ ഞങ്ങൾ തിരികെ പോയി 8 പര്യവേക്ഷണം ചെയ്യുന്നു അതിനാൽ 8 ന് അയൽക്കാർ 4 6 9 എന്നിവയുണ്ട് 4 ഉം 6 ഉം പഴയതാണ് പക്ഷേ 9 പുതിയതാണ് ഞങ്ങൾ ക്യൂവിലേക്ക് 9 ചേർക്കുന്നു ഇപ്പോൾ ഞങ്ങൾ തിരികെ പോയി 6 പര്യവേക്ഷണം ചെയ്യുന്നു കാരണം 6 എന്നത് ക്യൂവിന്റെ തലയുടെ ശീർഷകമാണ് അതിനാൽ ഇപ്പോൾ ഞങ്ങൾ 6 ന്റെ അയൽവാസികളിലേക്ക് നോക്കുന്നു 6 ന്റെ അയൽക്കാർ 5 7 8 9 എന്നിങ്ങനെയാണ് അതിനാൽ ക്യൂവിൽ നിന്ന് 6 നീക്കംചെയ്യുമ്പോൾ ഞങ്ങൾ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ തിരിച്ചുപോയി അത് കണ്ടെത്തുന്നു ഒന്നും ഇല്ല 6 ന്റെ എല്ലാ അയൽവാസികളും ഇതിനകം സന്ദർശിച്ചതിനാൽ ഇത് ചെയ്യണം തുടർന്ന് ഞങ്ങൾ 7 എടുക്കുന്നു 7 ന്റെ എല്ലാ അയൽവാസികളും ഇതിനകം സന്ദർശിച്ചതായി വീണ്ടും കാണാം അവസാനമായി ഞങ്ങൾ പിക്കപ്പ് 9 ഉം പിക്കപ്പ് 9 ഉം ഇതിന് അയൽവാസിയായ 6 8 ഉം 10 ഉം ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി 10 പുതിയതാണ് അതിനാൽ 10 മാർക്ക് നേടുകയും ക്യൂവിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു അവസാനമായി ഞങ്ങൾ 10 ലേക്ക് പോകുന്നു ഇതിന് ഒരു അയൽക്കാരൻ 9 മാത്രമേ ഉള്ളൂവെന്ന് ഞങ്ങൾ കണ്ടെത്തി അത് ഇതിനകം സന്ദർശിച്ചു ഈ ഘട്ടത്തിൽ ക്യൂ ശൂന്യമാവുകയും അൽഗോരിതം അവസാനിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാ വെർട്ടീസുകളും സന്ദർശിച്ചതായി ഞങ്ങൾ അടയാളപ്പെടുത്തി ഈ ലാബിലെ എല്ലാ ശീർഷകങ്ങളും യഥാർത്ഥത്തിൽ അതിൽ നിന്ന് എത്തിച്ചേരാമെന്ന് സൂചിപ്പിക്കുന്നു ഞങ്ങൾ കൂടുതൽ വെർട്ടീസുകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഈ ഗ്രാഫിൽ ഞങ്ങൾ ഒരു ഘടകം ചേർത്തിട്ടുണ്ടെങ്കിൽ 11 12 13 14 എന്നീ ലംബങ്ങളിൽ കൂടുതൽ ഘടകങ്ങൾ ഉള്ളതിൽ നിന്ന് ഞങ്ങളെ തടയാൻ ഇത് ഒന്നുമില്ല അപ്പോൾ 1 മുതൽ ആരംഭിക്കുന്ന ഈ പ്രക്രിയ 11 12 13 14 എന്നിവ ഉപേക്ഷിച്ച് സന്ദർശിക്കാത്തതായി അടയാളപ്പെടുത്തും അതിനാൽ ബിഎഫ്എസിനായി കുറച്ച് കൂടുതൽ ഔപചാരിക കോഡ് ഇവിടെയുണ്ട് അതിനാൽ ബിഎഫ്എസ് ഒരു ഫംഗ്ഷനാണ് അത് ആർഗ്യുമെൻറ് പോലെ എടുക്കുന്നു ഗ്രാഫ് പര്യവേക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നിടത്ത് നിന്ന് അതിനാൽ വെർട്ടീസുകളെ 1 മുതൽ n വരെ വിളിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ അറേ സന്ദർശിച്ചു അത് 0 ലേക്ക് സമാരംഭിക്കുന്നു ഇനിയും പര്യവേക്ഷണം ചെയ്യേണ്ട വെർട്ടീസുകൾ അടയാളപ്പെടുത്താൻ ഞങ്ങൾക്ക് ഒരു ക്യൂ ഉണ്ട് ഇത് ശൂന്യമാക്കാൻ സമാരംഭിച്ചു അതിനാൽ ഞാൻ സന്ദർശിച്ചവയെ 1 ന് തുല്യമായി അടയാളപ്പെടുത്തി ഞങ്ങൾ ആരംഭിക്കുന്നു അതിനാൽ വെർട്ടെക്സ് i സന്ദർശിച്ച അടയാളമാണ് ഞങ്ങൾ ക്യൂവിലേക്ക് ചേർത്തു ഇപ്പോൾ ഒരു ക്യൂ ശൂന്യമല്ലാത്ത കാലത്തോളം ഞങ്ങൾ ഇനിപ്പറയുന്ന ലൂപ്പിൽ മുന്നോട്ട് പോകുന്നു ഞങ്ങൾ ക്യൂവിന്റെ തല എക്സ്ട്രാക്റ്റുചെയ്യുന്നു അടുത്തതായി പര്യവേക്ഷണം ചെയ്യുന്ന ശീർഷകം ഓരോന്നും going ട്ട്ഗോയിംഗ് അരികുകളാണ് ഇത് മുമ്പ് സന്ദർശിച്ചിട്ടില്ലാത്ത ഒന്നാണെങ്കിൽ ഞങ്ങൾ അത് സന്ദർശിച്ചതായി അടയാളപ്പെടുത്തുകയും ഞങ്ങൾ അത് ക്യൂവിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് കൃത്യമായി അൽഗോരിത്തിന്റെ കോഡാണ് ഞങ്ങൾ കൈകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു അത് നേരെ നിശബ്ദമാണ് സന്ദർശിച്ച വെർട്ടീസുകളുടെ ട്രാക്ക് സൂക്ഷിക്കാൻ രണ്ട് ഡാറ്റാ സ്ട്രക്ചറുകളും അറേയും ഫയൽ പര്യവേക്ഷണം ചെയ്യേണ്ട വെർട്ടീസുകളുടെ ട്രാക്ക് സൂക്ഷിക്കാൻ ഒരു ക്യൂവുമുണ്ട് അതിനാൽ ഒരു അൽഗോരിത്തിന്റെ സങ്കീർണ്ണതയെ ഞങ്ങൾ എങ്ങനെ വിശകലനം ചെയ്യും സമയം കാണുക 1005 അതിനുള്ള ഒരു മാർഗ്ഗം ലൂപ്പ് നോക്കുക എന്നതാണ് അതിനാൽ ഇതുപോലുള്ള ഒരു അൽഗോരിതം സമയം കാണുക 1010 കാണുക ലൂപ്പ് ഉള്ളപ്പോൾ ലൂപ്പ് സാധാരണയായി നമ്മൾ അന്വേഷിക്കേണ്ട സ്ഥലമാണെന്ന് ഓർമ്മിക്കുക അതിനാൽ നമുക്ക് ഒരു ആവർത്തനമുണ്ട് അവിടെ നമുക്ക് 1 മുതൽ n വരെ ലൂപ്പ് ഉണ്ട് നമ്മൾ നിയോഗിക്കുന്നിടത്ത് ഇത് j 0 ന് തുല്യമാണ് അതിനാൽ ഇത് ഓർഡർ n സമയം എടുക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട് അവിടെ ഞങ്ങൾ ക്യൂവിൽ നിന്ന് കാര്യങ്ങൾ വേർതിരിച്ചെടുക്കുന്നു ഞങ്ങൾ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നു അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു ഈ ആന്തരിക ലൂപ്പ് എത്ര സമയം എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു അതിനാൽ ഓരോ ശീർഷകവും കൃത്യമായി ഒരു തവണ ക്യൂവിൽ പ്രവേശിക്കുന്നു അതിനാൽ ഞങ്ങൾ അത് കൃത്യമായി ഒരുതവണ നൽകുന്നു സമയം കാണുക 1047 എന്നിട്ട് ഇവിടെ ഈ ബാഹ്യ ലൂപ്പ് ക്രമം n സമയം എടുക്കുമെന്ന് പറയുന്നു കാരണം ഗ്രാഫ് കണക്റ്റുചെയ്തിട്ടുണ്ടെന്ന് കരുതുക ഓരോ വെർട്ടെക്സും ഒരു തവണ സന്ദർശിക്കും ആ വെർട്ടെക്സ് ക്യൂവിൽ പ്രവേശിക്കുമ്പോൾ അത് കൃത്യമായി ഒരു തവണ ക്യൂവിന്റെ തലയിൽ വരും ഇപ്പോൾ ഓരോ ശീർഷകത്തിനും അയൽവാസികളെയെല്ലാം ഞങ്ങൾ സ്കാൻ ചെയ്യണം അതിനാൽ ഞങ്ങൾ പറഞ്ഞത് നമുക്ക് ഒരു സമീപ മാട്രിക്സ് ഉണ്ടെങ്കിൽ ഇത് ഓർഡർ n ആയിരിക്കണം J നായുള്ള ആദ്യ എൻട്രിയിൽ നിന്ന് നിങ്ങൾ പോകേണ്ടതുണ്ട് ഇതിനായി ഞങ്ങൾ മുഴുവൻ വരിയും നോക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഓർഡർ n ആണ് അതിനാൽ ഗ്രാഫ് ആദ്യം ബന്ധിപ്പിച്ചിരിക്കുന്നു എല്ലാ ശീർഷകങ്ങളും ക്യൂവിലേക്ക് പ്രവേശിക്കും അതിനാൽ ഞങ്ങൾ ക്യൂ ലൂപ്പ് കൃത്യമായി n തവണ ചെയ്യും എക്സ്ട്രാക്റ്റുചെയ്ത ഓരോ ജെ യ്ക്കും ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട് അയൽവാസികളെയെല്ലാം പരിശോധിക്കുക അതിനാൽ അത് n വലുപ്പത്തിന്റെ സ്കാൻ ആയിരിക്കും അതിനാൽ മൊത്തത്തിൽ ഇത് ഓർഡർ n സ്ക്വയറാണ് ഈ രണ്ട് നെസ്റ്റഡ് ലൂപ്പുകളും വലുപ്പം n ആണ് അതിനാൽ ഇത് വ്യക്തമായും ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് വളരെ കുറച്ച് അരികുകളുണ്ടെങ്കിൽ ഒരു സമീപസ്ഥല ലിസ്റ്റ് പ്രാതിനിധ്യം ഉപയോഗിച്ച് നമുക്ക് സങ്കീർണ്ണത മെച്ചപ്പെടുത്താൻ കഴിയും അതിനാൽ അരികുകളുടെ എണ്ണം m ഉം m ഉം n സ്ക്വയറിനേക്കാൾ വളരെ ചെറുതാണ് അതിനാൽ അത് n ന് ആനുപാതികമായി പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് j യുമായി ബന്ധപ്പെട്ട പട്ടികയിലാണ് അത് j യുടെ അയൽക്കാരെ നോക്കേണ്ടതുണ്ട് നിങ്ങളുടെ സമീപത്തുള്ള മാട്രിക്സിലെ എല്ലാ ഓർഡർ എൻട്രികളും ഞങ്ങൾ നോക്കേണ്ടതില്ല ഇതിനെ ഒരു ഡിഗ്രി എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു ശീർഷകത്തിന്റെ ബിരുദം അതിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്ന നിരവധി ലംബങ്ങളാണ് അതിനാൽ ഞങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താനാകുന്നത് ആന്തരിക ലൂപ്പിന്റെ ആവർത്തനത്തിനുള്ളിൽ അയൽക്കാർക്കായി സ്കാൻ ചെയ്യുന്നതിന്റെ ഓരോ ഘട്ടവും ആനുപാതികമായ അളവിലുള്ള j എടുക്കുന്നു എന്നതാണ് ഇപ്പോൾ തീർച്ചയായും j യുടെ അളവ് ഒരു നോഡിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യാസപ്പെടുന്നു അതിനാൽ ഞങ്ങൾ ഇത് എങ്ങനെ ശരിയായി കണക്കാക്കും അതിനാൽ നിങ്ങൾ ഇത് ജോടിയാക്കിയ ലൂപ്പായി കണക്കാക്കുന്നില്ലെങ്കിലും മുഴുവൻ സൈക്കിൾ വെർട്ടീസുകളുടെയും മുഴുവൻ പ്രോസസ്സിംഗിലുടനീളം ഇത് കണക്കാക്കിയാൽ ഞങ്ങൾ കാണുന്നത് ഗ്രാഫിലെ ഓരോ അരികിലും ഞാൻ കോമ j എന്ന ഫോം ആണ് ഒരു സമയമുണ്ടാകും ഞാൻ പ്രോസസ്സ് ചെയ്യും ഞാൻ j ഒരു ലിസ്റ്റ് കാണും അവിടെ ഒരു സമയവും പ്രോസസ്സും ഉണ്ടാകും ഇത് ഞാൻ ഉള്ളതായി കാണും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാ വെർട്ടീസുകളുടെയും എല്ലാ സമീപസ്ഥല പട്ടികയും ഞാൻ എടുക്കുകയാണെങ്കിൽ ഓരോ അരികും രണ്ടുതവണ പ്രതിനിധീകരിക്കും കൂടാതെ ഒരു എഡ്ജ് i j ഒരു എൻട്രി ജെ ആയി ദൃശ്യമാകും കൂടാതെ i ഒരു എൻട്രി i j എന്നിവയ്ക്കുള്ള പട്ടിക എന്നിവ ദൃശ്യമാകും അതിനാൽ ഓരോ ആവർത്തനത്തിനും കണക്കാക്കുന്നത് എളുപ്പമല്ല എല്ലാ ആവർത്തനങ്ങളിലും ഞാൻ കണക്കാക്കുന്നു ഓരോ അരികിലും ഞാൻ രണ്ടുതവണ പര്യവേക്ഷണം ചെയ്യും

അതിനാൽ 2 മീറ്റർ m എന്ന് ക്രമീകരിച്ചിരിക്കുന്നു അതിനാൽ എല്ലാ n ആവർത്തനത്തിലുടനീളം അയൽക്കാരെ പര്യവേക്ഷണം ചെയ്യുന്നത് O m സമയമെടുക്കും അതിനാൽ ഇതിന്റെ അർത്ഥമെന്തെന്നാൽ സന്ദർശിച്ചതെല്ലാം അടയാളപ്പെടുത്തുന്നതിനുള്ള ആദ്യ ആവർത്തനത്തിന് കൂടുതൽ സമയം എടുക്കും ഞങ്ങൾക്ക് ഒരു O n ലൂപ്പ് ഉള്ളപ്പോൾ അതിലൂടെ ഞങ്ങൾ n ഘട്ടങ്ങളിലുടനീളം O m ചുവടുകൾ ചെയ്യുന്നു അതിനാൽ ഇത് മൊത്തത്തിലുള്ള n പ്ലസ് m ആണ് അതിനാൽ വീതിയുടെ ആദ്യ തിരയലിന്റെ സങ്കീർണ്ണത നിങ്ങൾ ഒരു സമീപസ്ഥല പട്ടിക ഉപയോഗിക്കുകയാണെങ്കിൽ അത് സമീപസ്ഥല മാട്രിക്സിനായി വർഗ്ഗീകരിച്ച O n പ്ലസ് m വേഴ്സസ് ഓർഡർ n ലേക്ക് താഴുന്നു അതിനാൽ ഞങ്ങൾക്ക് കുറച്ച് അരികുകളുണ്ടെങ്കിൽ ആദ്യത്തെ തിരയലിനായി സമീപസ്ഥല ലിസ്റ്റ് ഉപയോഗിക്കുന്നത് വളരെയധികം അർത്ഥമാക്കുന്നു ഇപ്പോൾ ഗ്രാഫുകളിൽ ഇൻപുട്ട് വലുപ്പം സാധാരണയായി m n എന്നിവയിലേക്ക് കൊണ്ടുപോകുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രണ്ട് പാരാമീറ്ററുകളും പരസ്പരം ഒരു പരിധിവരെ സ്വതന്ത്രമാണ് കാരണം നമുക്ക് വളരെയധികം അരികുകളുള്ള വളരെ കുറച്ച് അരികുകൾ മാത്രമേ വെർട്ടീസുകളുടെ ഒരു കൂട്ടം ഉണ്ടാകൂ അതിനാൽ സാധാരണയായി m ഉം n ഉം ഒരുമിച്ച് ഇൻപുട്ട് വലുപ്പമായി കണക്കാക്കുന്നു അതിനാൽ ഓർഡർ m പ്ലസ് n യഥാർത്ഥത്തിൽ ഒരു ലീനിയർ അൽഗോരിതം ആണ് അതിനാൽ ഇത് സാധ്യമായ ഏറ്റവും മികച്ചതാണ് കാരണം ഇൻപുട്ട് സാധാരണ പ്രോസസ്സ് ചെയ്യാതിരിക്കാൻ ഞങ്ങൾ വായിക്കണം അതിനാൽ രേഖീയ സമയത്ത് ആദ്യത്തെ തിരയൽ നടത്താൻ കഴിഞ്ഞു അതിനാൽ വീതിയേറിയ ആദ്യ തിരയലിൽ ഞങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഞങ്ങൾ തിരിച്ചറിഞ്ഞത് നിങ്ങൾ ആദ്യത്തെ തിരയൽ ആരംഭിക്കുന്നിടത്ത് നിന്ന് ഉറവിട വെർടെക്സുകളിലൊന്നായ സാധാരണ വെർടെക്സിലേക്ക് ഏതെല്ലാം വെർട്ടീസുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതിനാൽ ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും നൽകിയ വെർട്ടെക്സിനായി ഉറവിട വെർട്ടെക്സിൽ നിന്ന് എങ്ങനെ പോകാം അതിനാൽ ഞങ്ങൾ i BFS i സെറ്റുകൾ j ന് 1 ന് തുല്യമായി സന്ദർശിച്ചുവെങ്കിൽ ഞാനും j ഉം ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾക്ക് പാത അറിയില്ല അതിനാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഓർമ്മിക്കുക എന്നതാണ് അവിടെ നിന്ന് ഓരോ ശീർഷകവും ഞങ്ങൾ അടയാളപ്പെടുത്തി അതിനാൽ ഞങ്ങൾ സന്ദർശിച്ചതായി ഒരു ശീർഷകം അടയാളപ്പെടുത്തുമ്പോൾ അത് അടയാളപ്പെടുത്തിയിരിക്കുന്നു കാരണം ഇത് ഇതിനകം സന്ദർശിച്ച ചില അയൽവാസികളുടെ അയൽവാസിയാണ് K i j എന്ന് അടയാളപ്പെടുത്തി എന്ന് പറയാൻ കഴിയുമ്പോൾ ഞങ്ങൾ പാരന്റ് എന്ന പദം ഉപയോഗിക്കും അതിനാൽ പാരന്റ് ലിങ്കുകൾ പിന്തുടരുമ്പോൾ k ന്റെ രക്ഷകർത്താവ് j ആണെന്ന് ഞങ്ങൾ പറയും k ൽ നിന്ന് യഥാർത്ഥ ഉറവിട വെർട്ടെക്സിലേക്കുള്ള പാത നമുക്ക് പിന്നിലേക്ക് നിർമ്മിക്കാൻ കഴിയും അതിനാൽ ഒരു അപ്ലിക്കേഷൻ കോഡ് ചെയ്യുന്നത് ഇത് വളരെ എളുപ്പമാണ് അതിനാൽ ഞങ്ങൾ ഒരു വരി ചേർക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ രണ്ട് വരി അതിനാൽ തുടക്കത്തിൽ ഞങ്ങൾ പറയുന്നത് ഓരോ ശീർഷകത്തിനും രക്ഷകർത്താവ് നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അതിനാൽ മൈനസ് 1 പോലുള്ള ഒരു മൂല്യം ഞങ്ങൾ പറഞ്ഞിരുന്നു കാരണം ലംബങ്ങളുടെ പേര് 1 മുതൽ n വരെ ആണെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു തുടർന്ന് ഒരു ശീർഷകം അടയാളപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഒരു എഡ്ജ് j k പര്യവേക്ഷണം ചെയ്യുന്നതിനാൽ പാരന്റ് k j ആകാൻ പോകുന്നു അതിനാൽ k ന്റെ രക്ഷകർത്താവിനെ j ന് തുല്യമായി ഞങ്ങൾ നിയോഗിക്കുന്നു ബാക്കി കോഡ് മുമ്പത്തെ വീതിയുടെ ആദ്യ തിരയലിന് സമാനമാണ് ഞങ്ങൾ എങ്ങനെയാണ് ലംബങ്ങൾ അടയാളപ്പെടുത്തുന്നത് എന്ന് അറിയാൻ ഈ പുതിയ അറേ പാരന്റ് ചേർക്കുക അതിനാൽ നമുക്ക് പാത പുനർനിർമ്മിക്കാൻ കഴിയും അതിനാൽ നമുക്ക് പിന്നിലേക്ക് പോകാം അതിനാൽ k എന്നത് j കൊണ്ട് അടയാളപ്പെടുത്തിയതിനാൽ j മറ്റെന്തെങ്കിലും അടയാളപ്പെടുത്തും അതിനാൽ ഈ ലിങ്കുകൾ പിന്തുടർന്ന് നമുക്ക് ഏത് കെയിൽ നിന്നും ഈ പാത്ത് വെർട്ടെക്സിലേക്ക് മടങ്ങാം അതിനാൽ നമുക്ക് പാത്ത് പുനർനിർമ്മിക്കാൻ കഴിയും ആദ്യ തിരയലിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം ലെവലിന്റെ ട്രാക്ക് സൂക്ഷിക്കുക എന്നതാണ് അതിനാൽ ഓർക്കുക വിശാലമായ ആദ്യ തിരയൽ യഥാർത്ഥത്തിൽ ഗ്രാഫ് ലെവലിനെ പര്യവേക്ഷണം ചെയ്യുന്നു ഉറവിടത്തിൽ നിന്ന് ഒരു പടി അകലെയുള്ള എല്ലാ ലംബങ്ങളും നോക്കുന്നു തുടർന്ന് ആ വെർട്ടീസുകൾ ഇവയിൽ നിന്ന് ഒരു പടി അകലെയാണ് അതിനാൽ ലെവൽ 2 ൽ ഉറവിടത്തിൽ നിന്ന് രണ്ട് ചുവടുകൾ അകലെയാണ് അതിനാൽ ശീർഷകം സന്ദർശിച്ചുവെന്ന് പറയുന്നതിനുപകരം അത് ഏത് തലത്തിലാണ് സന്ദർശിച്ചതെന്ന് നമുക്ക് ചോദിക്കാം അതിനാൽ തുടക്കത്തിൽ ഞങ്ങൾ പറയുന്നത് എല്ലാ ലെവലും നിർവചിക്കപ്പെട്ടിട്ടില്ല തുടർന്ന് ഓരോ തവണയും ഞങ്ങൾ ഒരു പുതിയ ശീർഷകം സന്ദർശിക്കുമ്പോൾ അത് സന്ദർശിച്ച ശീർഷകത്തേക്കാൾ 1 ലെവൽ കൂടുതലാണ് അതിനാൽ ഒടുവിൽ നമ്മൾ പറയുന്നു ലെവൽ j ന് ചില സംഖ്യ p നൽകുകയാണെങ്കിൽ അത് യഥാർത്ഥ ശീർഷകത്തിൽ നിന്ന് ഒരുപടി അകലെയായിരിക്കണം അതിനാൽ ഒരു രക്ഷാകർതൃ കോഡിനൊപ്പം ഇത് ഒരു കോഡിലേക്ക് എളുപ്പത്തിൽ ചേർക്കാനും കഴിയും അതിനാൽ കഴിഞ്ഞ തവണ രക്ഷകർത്താക്കൾക്കായി ഞങ്ങൾ ഈ അസൈൻമെന്റ് ചേർത്തു ഇപ്പോൾ ലെവലിനായി ഞങ്ങൾ അസൈൻമെന്റും ചേർക്കുന്നു അതിനാൽ തുടക്കത്തിൽ ഓരോ ശീർഷകത്തിന്റെയും നില നിർവചിക്കപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ പറയുന്നു അതിനാൽ ഇത് മൈനസ് 1 പോലുള്ള ചില വിവേകശൂന്യമായ മൂല്യമാണ് എപ്പോൾ ഞങ്ങൾ ആരംഭ ശീർഷകത്തിന്റെ നില 0 ആണെന്ന് പറയുന്നു ഇപ്പോൾ നമ്മൾ ഒരു പുതിയ ശീർഷകം സന്ദർശിക്കുമ്പോഴെല്ലാം അത് ലെവലാണെങ്കിൽ അത് സന്ദർശിക്കുകയാണെങ്കിൽ അതിന് ഒരു ഉണ്ടായിരിക്കണം ലെവൽ അതിനാൽ ഈ ലെവൽ മൈനസ് 1 ആണ് അതിനാൽ ഇത് ലെവൽ മൈനസ് 1 ആണ് അതിനർത്ഥം സന്ദർശനമല്ല എന്നാണ് അതിനാൽ ലെവൽ മൈനസ് 1 എന്നാൽ സന്ദർശിച്ചിട്ടില്ല എന്നാണ് മുമ്പത്തെ കാര്യത്തിലെന്നപോലെ സന്ദർശിച്ച k എന്നതിന് തുല്യമാണ് 0 അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് k ന്റെ ലെവൽ സന്ദർശിച്ച j ലെവലിനേക്കാൾ ഒന്നായി ക്രമീകരിക്കുക തീർച്ചയായും രക്ഷകർത്താവ് മുമ്പാണെന്ന് ഞങ്ങൾ പറഞ്ഞു അതിനാൽ ഈ പ്രവൃത്തികളെല്ലാം ഞങ്ങളുടെ മുമ്പത്തെ ഉദാഹരണത്തിൽ കാണാൻ കഴിയും പതിവുപോലെ ഞങ്ങൾ 1 ൽ ആരംഭിച്ച് അതിനെ 0 ആയി ലെവൽ എന്ന് അടയാളപ്പെടുത്തുന്നു അതിന് ഒരു ജോഡി ഇല്ല ഇപ്പോൾ ഞങ്ങൾ 2 3 4 എന്നിവ ചേർക്കുമ്പോൾ അവയെല്ലാം ലെവൽ 1 ൽ ആയിരിക്കും അവയ്ക്കെല്ലാം രക്ഷാകർതൃ 1 ആയിരിക്കും കാരണം ഞങ്ങൾക്ക് 1 ൽ നിന്ന് ഒരു പര്യവേക്ഷണം ഉണ്ട് അതിനുശേഷം രണ്ട് പേർക്ക് മുമ്പുള്ളതുപോലെ ഞങ്ങളുടെ പട്ടികയിലേക്ക് പുതിയ ഒന്നും ചേർക്കുന്നില്ല p ഒരു പട്ടികയിലേക്ക് ഒന്നും ചേർക്കുന്നില്ല ഇപ്പോൾ 4 ഉം 5 ഉം ഇന്റും ചേർക്കും ഇതുവരെ ഈ 2 ലെവൽ 2 ഉം രക്ഷകർത്താവ് 4 ഉം ആയിരിക്കും ഇത് എന്റെ പര്യവേക്ഷണത്തിൽ 4 ൽ നിന്ന് 5 ഉം 8 ഉം വാങ്ങിയതായി സൂചിപ്പിക്കുന്നു പിന്നെ 5 ൽ നിന്ന് എനിക്ക് 6 ഉം 7 ഉം ലഭിക്കും അതിനാൽ ഇവ ഇപ്പോൾ ലെവൽ 3 ലാണ് കാരണം 5 ലെവൽ 2 ലായിരുന്നു അതിനാൽ 6 ഉം 7 ഉം ലെവൽ 3 ലും അവരുടെ മാതാപിതാക്കൾ 5 ഉം 8 ൽ നിന്ന് ഞാൻ പോകും 9 മുതൽ 9 വരെ ലെവൽ 3 ലും ഉണ്ട് കാരണം 8 ഇതിനകം 2 ലെവലിൽ ആയിരുന്നു അതിനാൽ 9 ലെവൽ 3 ഉം അത് 8 ന് പാരന്റുമാണ് അവസാനമായി 10 ലെവൽ 4 ലെതാണെന്നും അത് പാരന്റ് 9 ആണെന്നും ഞങ്ങൾ കണ്ടെത്തും അതിനാൽ ഇപ്പോൾ നമുക്ക് ജോഡി കണ്ടെത്താൻ കഴിയും അതിനാൽ എനിക്ക് പറയാൻ കഴിയും എനിക്ക് 10 ൽ നിന്ന് ലഭിച്ചു ഞാൻ 9 ൽ നിന്ന് വന്നു അതിനാൽ 9 ൽ നിന്ന് 8 ൽ നിന്ന് 8 ൽ നിന്ന് 4 ൽ നിന്ന് 4 ൽ നിന്ന് 1 ൽ നിന്ന് അതിനാൽ പാത യഥാർത്ഥത്തിൽ 10 മുതൽ 9 വരെ 8 മുതൽ 4 മുതൽ 1 വരെ ആണ് നിങ്ങൾക്ക് 10 മുതൽ 9 വരെ 8 മുതൽ 4 മുതൽ 1 വരെ ഒരു പാതയുണ്ട് അതിനാൽ നിങ്ങൾ ആദ്യത്തെ തിരയൽ കണക്കുകൂട്ടുമ്പോൾ ഒരേ സമയം പാത്ത് വിവരങ്ങളും വിദൂര വിവരങ്ങളും എങ്ങനെ പുനർനിർമ്മിക്കാൻ കഴിയും അതിനാൽ ഈ ലെവൽ പ്രെഡിക്കേറ്റ് ചേർത്താൽ ആദ്യത്തെ തിരയൽ വീതി അരികുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നോഡിലേക്കും ഏറ്റവും ചെറിയ പാത ഇത് നൽകുന്നു ഇപ്പോൾ പൊതുവേ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ആകർഷകമായ ചിലവ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അരികുകളിൽ വ്യത്യസ്ത വിലയുണ്ട് അപ്പോൾ ഹ്രസ്വമായ പാത അരികുകളുടെ എണ്ണത്തിൽ നിന്ന് ഹ്രസ്വമായിരിക്കണമെന്നില്ല വെയ്റ്റഡ് ഗ്രാഫുകൾ എന്ന് വിളിക്കുന്ന ഓരോ പാതയുമായി ബന്ധപ്പെട്ട ചിലവ് ഞങ്ങൾ ചേർക്കേണ്ടതുണ്ട് പക്ഷേ ഒരു വെയ്റ്റഡ് ഗ്രാഫിൽ ഒരു ഗ്രാഫ് ആയ നമുക്ക് ഇപ്പോൾ ഉള്ളതുപോലെ ലളിതമായ അരികുകളുണ്ട് ഉറവിട വെർട്ടെക്സിൽ നിന്ന് അതിൽ നിന്ന് എത്തിച്ചേരാവുന്ന ഓരോ ശീർഷകത്തിലേക്കും അരികുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹ്രസ്വമായ പാത കണക്കുകൂട്ടുന്നതിനുള്ള അധിക നേട്ടം ബ്രെത്ത് ആദ്യ തിരയലിന് ഉണ്ട്